K നിയറെസ്റ് നെയിബേർസ് ഇമ്പ്ലിമെന്റേഷൻ ഇൻ R എല്ലാവർക്കും ഹലോ R ൽ k നിയറെസ്റ് നെയിബർ ഇമ്പ്ലിമെൻറ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഈ ലെക്ച്ചറിൽ R ൽ ഈ knn അൽഗോരിതം എങ്ങനെ നടപ്പിലാക്കണം എന്ന് വിശദീകരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കേസ് പഠനത്തിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കേസ് സ്റ്റഡിയുടെ പ്രശ്ന പ്രസ്താവനയിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കും R ഉപയോഗിച്ച് ഈ കേസ് പഠനം എങ്ങനെ പരിഹരിക്കാം എന്നത് ഞങ്ങൾ കാണിക്കും ഈ പ്രക്രിയയിൽ ഡോട്ട് CSV le ൽ നിന്ന് ഡാറ്റ എങ്ങനെ വായിക്കാം R ന്റെ വർക്ക്സ്പെയ്സിലേക്ക് ലോഡ് ചെയ്യുന്ന ഡാറ്റ എങ്ങനെ മനസ്സിലാക്കാം ഈ knn ഫംഗ്ഷൻ ഉപയോഗിച്ച് R ൽ ഈ K നിയറെസ്റ് നെയിബേഴ്സിന്റെ അൽഗോരിതം എങ്ങനെ നടപ്പിലാക്കാം എന്നിവ ഞങ്ങൾ കാണിക്കും ഈ knn അൽഗോരിതം നമുക്ക് നൽകുന്ന ഫലങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും കേസ് പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൊഫ രഘുവിന്റെ മുൻ ലെക്ച്ചറിലെ ചില പ്രധാന പോയിന്റുകൾ നമുക്ക് അവലോകനം ചെയ്യാം knn പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒരു ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതം ആയിട്ടാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നൽകിയ ഡാറ്റ ലേബൽ ചെയ്തിരിക്കണം കൂടാതെ knn ഒരു നോൺ പാരാമെട്രിക് രീതി ആണ് അതിനാൽ ഈ നോൺ പാരാമെട്രിക് രീതി ഉപയോഗിച്ച് ഡാറ്റയിൽ നിന്ന് തന്നെ ക്ലാസിഫയറുകളുടെ പാരാമീറ്ററുകൾ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ knn അൽഗോരിതത്തിൽ വ്യക്തമായ പരിശീലന ഘട്ടമൊന്നും ഉൾപ്പെട്ടിട്ടില്ല knn അൽഗോരിതം ഒരു അലസമായ പഠന അൽഗോരിതം ആണ് കാരണം നിങ്ങളോട് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് വരെ അത് കണക്കുകൂട്ടലുകളൊന്നും ചെയ്യില്ല K നിയറെസ്റ് നെയിബെർസുമായി നമ്മൾ ഇടപെടുന്നതിനാൽ ഈ knn അൽഗോരിതം കൈകാര്യം ചെയ്യുമ്പോൾ ദൂരത്തെക്കുറിച്ചുള്ള ഈ ആശയം പ്രധാനമാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് knn അൽഗോരിതം പ്രവർത്തിക്കുന്ന രീതി ഭൂരിപക്ഷ വോട്ടിംഗ് രീതിയാണ് അതിനർത്ഥം നിങ്ങൾ ഒരു ടെസ്റ്റ് പോയിന്റ് നൽകുകയാണെങ്കിൽ നൽകിയിരിക്കുന്ന ഡാറ്റയിലെ എല്ലാ ഡാറ്റാ പോയിന്റുകളിൽ നിന്നും ഞങ്ങൾ ടെസ്റ്റ് പോയിന്റിന്റെ ദൂരം കണക്കാക്കുകയും അവ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ആദ്യം അടുത്തുള്ള k നിയറെസ്റ് നെയിബറിനെ തെരഞ്ഞെടുക്കുന്നു ഈ ടെസ്റ്റ് ഡാറ്റയ്ക്കായി ഓരോരുത്തരും നൽകുന്ന വോട്ടിംഗിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഡാറ്റാ പോയിന്റിലേക്ക് ക്ലാസ് അസൈൻ ചെയ്യും അങ്ങനെയാണ് പ്രധാനമായും knn പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് കേസ് സ്റ്റഡി പ്രശ്ന പ്രസ്താവന നോക്കാം ഞങ്ങൾ ഈ കേസ് സ്റ്റഡിക്ക് ഒരു ഓട്ടോമോട്ടീവ് സർവീസ് കമ്പനി കേസ് സ്റ്റഡി എന്ന് പേരിട്ടു നമുക്ക് പ്രശ്ന പ്രസ്താവന നോക്കാം ഒരു ഓട്ടോമോട്ടീവ് സർവീസ് ശൃംഖല ഈ വാരാന്ത്യത്തിൽ പുതിയ സർവീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നു വൈവിധ്യമാർന്ന കാറുകൾക്ക് അവർ സേവനം വാഗ്ദാനം ചെയ്യുന്നു പ്രതിദിനം 315 കാറുകൾ കൃത്യമായി പരിശോധിക്കുന്നതാണ് സ്റ്റേഷന്റെ നിലവിലെ ശേഷി ഒരു ഉദ്ഘാടന ഓഫർ എന്ന നിലയിൽ അവരുടെ ലോഞ്ച് ദിവസം വരുന്ന എല്ലാ കാറുകളും സൌജന്യമായി പരിശോധിക്കുമെന്നും അവർക്ക് സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് റിപ്പോർട്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞു അപ്രതീക്ഷിതമാണ് സംഭവിച്ചത് അവർക്ക് 450 കാറുകൾ ലഭിച്ചു ഇപ്പോൾ അവർക്ക് 315 കാറുകൾ മാത്രം പരിശോധിക്കാനുള്ള ടെസ്റ്റിംഗ് സൌകര്യമേ ഉള്ളു അവർക്ക് 450 കാറുകളും കൃത്യമായി പരിശോധിക്കാൻ കഴിയില്ല മാത്രമല്ല സാധാരണ ജോലി സമയത്തേക്കാൾ കൂടുതൽ സമയം സെർവീസ്മാൻ ജോലി ചെയ്യുകയുമില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ സഹായത്തിനായി ഒരു ഡാറ്റ അനലിസ്റ്റിനെ നിയമിച്ചു എന്നതാണ് അവർ ചെയ്തത് ഈ ഓട്ടോമോട്ടീവ് സർവീസ് സ്റ്റേഷൻ നിയമിച്ച ഡാറ്റാ അനലിസ്റ്റ് നിങ്ങളാണെങ്കിൽ ഈ പുതിയ സർവീസ് സ്റ്റേഷന്റെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഈ സർവീസ് സ്റ്റേഷനിലെ ആളുകൾക്കായി ഒരു ഡാറ്റ ശാസ്ത്രജ്ഞന് ഒരു ദിവസം എങ്ങനെ ലാഭിക്കാമെന്ന് നോക്കാം സർവീസ് സ്റ്റേഷന് 315 കാറുകൾ നന്നായി പരിശോധിക്കാൻ കഴിയുമെന്നതിനാൽ അവർ 315 കാറുകളും നന്നായി പരിശോധിച്ച് അത് ഈ സേവനമായ traindata csv ൽ ഡാറ്റ നൽകി ഇപ്പോൾ 450 കാറുകളിൽ ബാക്കിയുള്ള കാറുകളിൽ അവർക്ക് എല്ലാ ഡാറ്റയും നന്നായി പരിശോധിക്കാൻ കഴിയില്ല മാത്രമല്ല അവർ എളുപ്പത്തിൽ അളക്കാൻ കഴിയുന്ന ആട്രിബ്യൂട്ടുകൾ മാത്രം പരിശോധിച്ച് ഡാറ്റ ഈ service test data dot csv യിൽ നൽകിയിട്ടുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി ഡാറ്റ സയന്റിസ്റ്റിന്റെ പക്കൽ പരിശീലന ഡാറ്റ പോലെയുള്ള ഡാറ്റയുണ്ട് അതിൽ കുറച്ച് ആട്രിബ്യൂട്ടുകളും ഒരു സർവീസ് ആവശ്യമാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ലേബലും അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇപ്പോൾ മറ്റെല്ലാ ആട്രിബ്യൂട്ടുകളും ഉള്ള ഡാറ്റയും അവന്റെ പക്കലുണ്ട് സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നിടത്ത് അദ്ദേഹത്തിന് ഈ കോളം ഇല്ല ഈ സാഹചര്യത്തിൽ സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സർവീസ് പരിശോധനാ ഡാറ്റയിൽ നിലവിലുള്ള റീഡിംഗുകളിൽ അഭിപ്രായമിടുന്നതിന് ഈ ഡാറ്റ സർവീസ് ട്രെയിൻ ഡാറ്റ എന്നിവ എങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് ഇവിടെയുള്ള ആശയം അതിനാൽ ഈ knn ക്ലാസിഫിക്കേഷൻ ടെക്നിക് ഉപയോഗിച്ച് സർവീസ് ടെസ്റ്റ് ഡാറ്റയിലെ കാറുകളെ തരംതിരിച്ച് മാനുവലായി ടെസ്റ്റ് ചെയ്യാനും സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയാനുമാണ് ഉദ്ദേശിക്കുന്നത് R ൽ ഈ കേസ് പഠനം നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് കാര്യങ്ങൾ തയ്യാറാക്കാൻ ഞാൻ പറയുമ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ലെസ് ലഭ്യമായ ഡയറക്ടറിയായി നിങ്ങൾ വർക്കിംഗ് ഡയറക്ടറി സജ്ജമാക്കണം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് സെറ്റ് വർക്കിംഗ് ഡയറക്ടറി കമാൻഡും നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്ന അനുബന്ധ പാതയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ വർക്കിംഗ് ഡയറക്ടറി സജ്ജീകരിക്കുന്നതിന് നിങ്ങൾക്ക് GUI ഓപ്ഷനും ഉപയോഗിക്കാം R ന്റെ പരിതസ്ഥിതിയിലുള്ള എല്ലാ വേരിയബിളുകളും മായ്ക്കുന്നതിന് ഇവിടെയുള്ള ഈ കമാൻഡ് ഉപയോഗിക്കുന്നു വർക്ക്സ്പെയ്സിലെ വേരിയബിളുകൾ മായ്ക്കുന്നതിന് നിങ്ങൾക്ക് എൻവയർമെൻറ് ഹിസ്റ്ററി പാനിലെ ബ്രഷ് ബട്ടൺ നന്നായി ഉപയോഗിക്കാം ഈ knn നടപ്പിലാക്കുന്നതിന് ഒരാൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യം നമുക്ക് രണ്ട് ബാഹ്യ പാക്കേജുകൾ ആവശ്യമാണ് എന്നതാണ് അത് Caret class എന്നിവയാണ് അവ ഇതിനകം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ caret class പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യണം അതിനാൽ ഈ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള വഴി ഞങ്ങളുടെ R മൊഡ്യൂളുകളിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കമാൻഡ് വിൻഡോയിലൂടെ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാം പാക്കേജിന്റെ പേര് ഇൻസ്റ്റാൾ ചെയ്യുക ഡിപൻഡൻസി true എന്ന് പറയുക അല്ലെങ്കിൽ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് GUI ഉപയോഗിക്കാം അതിനാൽ caretclass എന്നീ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുകഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകം വിശദീകരിച്ചതുപോലെ ലൈബ്രറി കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പാക്കേജുകൾ ലോഡ് ചെയ്യാൻ കഴിയും ഈ ലെക്ച്ചർ തുടരുമ്പോൾ ഈ പാക്കേജുകൾ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ഒരു ക്ലാസിഫയറിന്റെ ഈ പെർഫോമൻസ് മെട്രിക്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രൊഫ രഘു പറയുമായിരുന്ന കൺഫ്യൂഷൻ മാട്രിക്സ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് ലൈബ്രറി കാരറ്റ് കൂടാതെ ഈ ലൈബ്രറി ക്ലാസ് വ്യത്യസ്ത ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറിയാണ് ഇവിടെ knn ഇമ്പ്ലിമെൻറ് ചെയ്യുന്നതിന് ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നു ഇപ്പോൾ ഡാറ്റ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം നൽകിയിട്ടുള്ള ലെസിൽ നിന്നും ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതിനകം servicetraindata csv service test data dot csv എന്നിവ കണ്ടതിനാൽ രണ്ട് les ലാണ് ഡാറ്റ നൽകുന്നത് അതിനാൽ csv ഫയലുകളിൽ നിന്ന് ഈ ഡാറ്റ വായിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ read csv ഫംഗ്ഷൻ ആണ് ഈ റീഡ് ഡോട്ട് CSV ഫംഗ്ഷൻ എന്താണ് എടുക്കുന്നതെന്നും അത് എന്ത് നൽകുന്നുവെന്നും നമുക്ക് നോക്കാം ഈ read csv ഫയൽ ടേബിൾ ഫോർമാറ്റിൽ ഒരു ഫയൽ വായിക്കുകയും അതിൽ നിന്ന് ഒരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ read csv ഫംഗ്ഷന്റെ വാക്യഘടന ഇപ്രകാരമാണ് read csv ഫയലിന്റെ പേരും റോയുടെ പേരുകളും വായിക്കുക ഈ ഇൻപുട്ട് ആർഗ്യുമെന്റുകളിലെ row names എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഡാറ്റ വായിക്കേണ്ട ഫയലിന്റെ പേരാണ് പ്രധാനമായും ഫയൽ names റോ നെയിമുകളുടെ ഒരു വെക്ടറാണ് അത് ഒന്നുകിൽ യഥാർത്ഥ റോ നെയിമുകൾ നൽകുന്ന വെക്ടറോ അല്ലെങ്കിൽ ഡാറ്റാ സെറ്റിന്റെ ഏത് കോളത്തിലാണ് റോയുടെ പേരുകളുള്ളതെന്ന് വ്യക്തമാക്കുന്ന ഒരൊറ്റ മൂല്യമോ ആകാം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഡാറ്റ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം csv ഫയലുകളിൽ ഡാറ്റ നൽകിയിരിക്കുന്നത് നമ്മൾ കണ്ടതുപോലെ ഡാറ്റ വായിക്കാൻ നമുക്ക് read csv ഫങ്ക്ഷൻ പയോഗിക്കാം read csv യുടെ സിന്റക്സിൽ നമ്മൾ കണ്ടതുപോലെ നമ്മൾ servicetrain data എന്ന ഫയൽനെയിമാണ് ഡേറ്റ ലോഡ് ചെയ്യാനായിട്ട് നൽകേണ്ടത് ഞാൻ ഈ ഫയൽ നെയിം നൽകുന്നു കൂടാതെ ഇവക്ക് രണ്ടിനുമായി സർവിസ് ട്രെയിൻ എന്ന് വിളിക്കുന്ന ഒരു വേരിയബിളും ഞാൻ നൽകുന്നു നിങ്ങൾ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്തെന്നാൽ അത് സർവീസ് ട്രെയിൻ ഡാറ്റാ ഫയലിൽ നിന്നുള്ള ഡാറ്റ വായിക്കുകയും ഫോം ഡാറ്റ ഫ്രെയിമിലുള്ള ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ നിങ്ങൾ സർവീസ് ടെസ്റ്റ് ഡാറ്റയിൽ നിന്ന് ഡാറ്റ വായിക്കുകയും ഇത് വേരിയബിൾ സർവീസ് ടെസ്റ്റിലേക്ക് അസൈൻ ചെയ്യുകയും ചെയ്താൽ അതും ഒരു ഡേറ്റ ഫ്രെയിo ആണ് R പരിതസ്ഥിതിയിൽ നിങ്ങൾ ഈ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്തുകഴിഞ്ഞാൽ 6 വേരിയബിളുകളുടെ ഈ 315 നിരീക്ഷണങ്ങളും 6 വേരിയബിളുകളുടെ 135 നിരീക്ഷണങ്ങളും ഉള്ള സർവീസ് ടെസ്റ്റും സർവീസ് ട്രെയിനും ആയ രണ്ട് ഡാറ്റ ഫ്രെയിമുകൾ നിങ്ങൾ കാണും എന്തുകൊണ്ടാണ് ഈ 315 എന്ന് ഓർക്കുന്നുണ്ടോ 315 എന്നത് അവർക്ക് നന്നായി പരിശോധിക്കാൻ കഴിയുന്ന കാറുകളുടെ എണ്ണമാണ് എന്നാൽ ഈ 315 ൽ അവർ നൽകിയിരിക്കുന്നത് 6 വേരിയബിളുകൾ എളുപ്പത്തിൽ അളക്കാവുന്ന ആട്രിബ്യൂട്ടുകളും സർവീസ് ആവശ്യമാണോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു കോളവുമാണ് ഈ 135 കാറുകൾക്ക് 6 വേരിയബിളുകൾ ഉണ്ട് അവ പ്രധാനപ്പെട്ട 5 ആട്രിബ്യൂട്ടുകളും അളന്നു കൂടാതെ 6 ആട്രിബ്യൂട്ടുകളും ഇവിടെ നൽകിയിരിക്കുന്നു എന്തുകൊണ്ടാണ് 6 ആട്രിബ്യൂട്ടുകൾ നൽകിയിരിക്കുന്നത് എന്നും മറ്റും ഈ ലെക്ച്ചർ തുടരുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ സർവീസ് ട്രെയിനിലും സർവീസ് ടെസ്റ്റ് ഡാറ്റയിലും എന്താണ് ഉള്ളതെന്ന് നോക്കാം ഈ സർവീസ് ടെസ്റ്റിലും സർവീസ് ട്രെയിനിലും എന്താണ് ഉള്ളതെന്ന് കാണാനുള്ള ഒരു മാർഗ്ഗം വ്യൂ കമാൻഡ് ഉപയോഗിക്കുക എന്നതാണ് ഡാറ്റ ഫ്രെയിമുകൾ കാണാൻ ഈ വ്യൂ കമാൻഡ് നിങ്ങളെ സഹായിക്കുന്നു ഉദാഹരണത്തിന് സർവീസ് ട്രെയിൻ ഡാറ്റ ഫ്രെയിമിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വ്യൂ സർവീസ് ട്രെയിൻ നിങ്ങളുടെ എഡിറ്റർ എൻവയോൺമെന്റിൽ ഇതുപോലൊരു പട്ടിക കാണിക്കും ഇപ്പോൾ 1 2 3 4 5 6 ഇതുപോലെ എത്ര ആട്രിബ്യൂട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള അഞ്ച് ആട്രിബ്യൂട്ടുകൾ ഇവയാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ആട്രിബ്യൂട്ട് സർവീസ് ആവശ്യമാണോ ഇല്ലയോ എന്ന് പറയുന്നു അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന സർവീസ് ടെസ്റ്റ് ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും തൽക്കാലം നമ്മൾ അനുമാനിക്കുന്നത് ഈ കോളം അറിയാത്ത വിധത്തിൽ പ്രവർത്തിക്കും എന്നാണ് നമുക്ക് പിന്നീട് ഇതിലേക്ക് തിരിച്ചുവരാം ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിരീക്ഷിച്ചാൽ 135 എൻട്രികൾ അവർ നന്നായി പരിശോധിച്ചിട്ടില്ല എന്നും അവർ ഈ 6 ക്വാണ്ടിറ്റികൾ മാത്രമാണ് പരിശോധിച്ചതെന്നും കൂടാതെ സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിനു വേണ്ടി knn അൽഗോരിതം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമുള്ളതാണ് ഇവിടുത്തെ ആശയം ഈ സർവീസ് ടെസ്റ്റിലും സർവീസ് ട്രെയിൻ ഡാറ്റാ സെറ്റിലും ഉള്ളത് നിങ്ങൾ കണ്ടതിനാൽ സർവീസ് ട്രെയിനിൽ ഉള്ള ഈ ആട്രിബ്യൂട്ടുകളുടെ ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ ഇപ്പോൾ എന്തെങ്കിലും മാർഗമുണ്ടോ സർവീസ് ടെസ്റ്റാണ് അടുത്തതായി മനസ്സിൽ വരുന്ന ചോദ്യം ഇപ്പോൾ നമുക്ക് ഡാറ്റയും കുറച്ചുകൂടി വിശദാംശങ്ങളും മനസ്സിലാക്കാം സർവീസ് ട്രെയിനിൽ ആറ് വേരിയബിളുകളുടെ 315 നിരീക്ഷണങ്ങളും സർവീസ് ടെസ്റ്റിൽ 6 വേരിയബിളുകളിലായി 135 നിരീക്ഷണങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഡാറ്റാ സെറ്റുകളിൽ നിലവിലുള്ള വേരിയബിളുകൾ ഓയിൽ ക്വാളിറ്റി എഞ്ചിൻ പെർഫോമൻസ് സാധാരണ മൈലേജ് ടയർ വെയർ HVAC വെയർ സർവീസ് എന്നിവയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാറിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ആട്രിബ്യൂട്ടുകളാണ് ഈ 5 എണ്ണവും സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഈ ആട്രിബ്യൂട്ട് ലളിതമായി പറയുന്നു അതാണ് ഇവിടെയുള്ളത് ആദ്യത്തെ അഞ്ച് കോളങ്ങൾ കാറിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അവസാന കോളം ഒരു സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ലേബലും ആണ് ഇനി നമുക്ക് ഈ ചോദ്യം ചോദിക്കാം ഈ ഓരോ ആട്രിബ്യൂട്ടുകളുടെയും ഡേറ്റ ടൈപ്പുകൾ എന്തൊക്കെയാണ് ഡാറ്റയിൽ ഉള്ള ആട്രിബ്യൂട്ടുകളുടെ ഡാറ്റ ടൈപ്പുകൾ എങ്ങനെ ലഭിക്കും അതിനാൽ നമ്മൾ ഇപ്പോൾ ഡാറ്റ മനസ്സിലാക്കിക്കഴിഞ്ഞു ഇനി നമുക്ക് ഡേറ്റയുടെ ഘടന എന്താണെന്ന് നോക്കാം നിങ്ങൾ ഡാറ്റയുടെ സ്ട്രക്ച്ചർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണെന്നാൽ ഡാറ്റ സെറ്റിൽ നിങ്ങൾക്ക് അവിടെയുള്ള വേരിയബിളുകൾ എന്തൊക്കെയാണ് അവയുടെ ഡാറ്റ ടൈപ്പുകൾ എന്തൊക്കെയാണ് എന്നതാണ് അതിനാൽ ഈ സ്ട്രക്ച്ചർ ഫങ്ക്ഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് R ൽ ഡാറ്റയുടെ സ്ട്രക്ച്ചർ ലഭിക്കുന്നത് ഈ സ്ട്രക്ചർ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്നാൽ സ്ട്രക്ചർ ഫംഗ്ഷൻ ഒരു R ഒബ്ജക്റ്റിന്റെ ആന്തരിക സ്ട്രക്ച്ചറിനെ ഒതുക്കമുള്ള രീതിയിൽ പ്രദർശിപ്പിക്കുന്നു സ്ട്രക്ചർ ഫംഗ്ഷന്റെ വാക്യഘടന ഇപ്രകാരമാണ് സ്ട്രക്ചർ ഫംഗ്ഷൻ ഒരു ഇൻപുട്ട് ആർഗ്യുമെന്റ് എടുക്കുന്നു അത് ഒരു ഒബ്ജക്റ്റ് ആണ് എന്താണ് ഈ ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് അടിസ്ഥാനപരമായി നിങ്ങൾ ചില വിവരങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും R ഒബ്ജക്റ്റാണ് ഇപ്പോൾ നമുക്ക് 2 csv ഫയലുകളിൽ നിന്ന് നമ്മൾ വായിച്ച രണ്ട് ഡാറ്റ ഫ്രെയിമുകളുടെ ഘടന നോക്കാം സർവീസ് ട്രെയിൻ ഡാറ്റ ഫ്രെയിമിന്റെ ഘടന നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ സർവീസ് ട്രെയിനിന്റെ ഈ കമാൻഡ് ഘടന നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ അത് നൽകുന്നത് ഇനിപ്പറയുന്ന വിവരങ്ങളാണ് സർവീസ് ട്രെയിൻ എന്നത് ആറ് വേരിയബിളുകളുടെ 315 നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡാറ്റ ഫ്രെയിമാണ് ഓയിൽ ക്വാളിറ്റി എഞ്ചിൻ പെർഫോമൻസ് തുടങ്ങിയവയാണ് വേരിയബിളുകൾ ഈ അഞ്ച് ആട്രിബ്യൂട്ടുകളുടെയും ഡാറ്റ ടൈപ്പ് സംഖ്യാപരമായതാണെന്ന് അവർ പറയും അവസാന ആട്രിബ്യൂട്ട് ആയ സർവീസ് രണ്ട് ലെവലുകളുള്ള ഒരു ഘടകമാണ് അതായത് ഈ ആട്രിബ്യൂട്ടിൽ നമുക്ക് അതെ അല്ലെങ്കിൽ ഇല്ല എന്നാണ് ഉള്ളത് ഈ ഒന്ന് രണ്ട് എന്നത് ഓരോ എൻട്രിയെയും പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് ഒന്ന് no എന്നതിന് സമാനമാണ് രണ്ട് yes എന്നതിനോട് യോജിക്കുന്നു സർവീസ് ടെസ്റ്റ് ഡാറ്റയിലെ സ്ട്രക്ചർ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് അത് എന്താണെന്ന് നോക്കാം ഈ കമാൻഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് ഇതാണ് 6 വേരിയബിളുകളിലായി 135 നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡാറ്റ ഫ്രെയിം കൂടിയാണ് സർവീസ് ടെസ്റ്റ് എന്ന് ഇത് പറയുന്നു ലഭ്യമായ വേരിയബിളുകൾ ഇവയാണ് ആദ്യത്തെ 5 വേരിയബിളുകൾ സംഖ്യാ ടൈപ്പ് വേരിയബിളുകളാണ് കൂടാതെ സർവീസ് വേരിയബിൾ യെസ് അല്ലെങ്കിൽ നോ എന്ന രണ്ട് ലെവലുകളുള്ള ഒരു ഘടകമാണ് ഡാറ്റയുടെ സ്ട്രക്ച്ചർ നമ്മൾ കണ്ടതിനാൽ ഈ ചോദ്യം ചോദിക്കാം ഞാൻ വായിച്ച ഡാറ്റയുടെ ഒരു സമ്മറി എനിക്ക് ലഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഉത്തരം അതെ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നാണ് സമ്മറി ഫങ്ക്ഷനിലൂടെയാണ് ഡാറ്റയുടെ സമ്മറി ലഭിക്കുന്നത് ഈ സമ്മറി ഫംഗ്ഷനോടൊപ്പം പോകുന്ന ആർഗ്യുമെന്റിന്റെ ക്ലാസിനെ ആശ്രയിച്ച് പ്രത്യേക മെത്തേഡുകൾ എടുക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായി അത് ചെയ്യുന്നത് ഉദാഹരണത്തിന് സമ്മറി ഫങ്ക്ഷൻ ഡാറ്റയിലെ സംഖ്യാ ആട്രിബ്യൂട്ടുകൾക്ക് 5 പോയിന്റ് സമ്മറി നൽകുന്നു സമ്മറി ഫങ്ക്ഷനുള്ള വാക്യഘടന ഇപ്രകാരമാണ് സമ്മറി ഫങ്ക്ഷൻ ഒബ്ജക്റ്റായ ഒരു ആർഗ്യുമെന്റ് എടുക്കുന്നു ഈ ഒബ്ജക്റ്റ് നിങ്ങൾ ചില വിവരങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും R ഒബ്ജക്റ്റാണ് നമുക്ക് നമ്മൾ ലോഡ് ചെയ്ത ഡാറ്റ ഫ്രെയിമുകളിൽ സമ്മറി ഫങ്ക്ഷൻ ഉപയോഗിക്കുകയും ഫലങ്ങൾ എന്താണെന്ന് നോക്കുകയും ചെയ്യാം അതിനാൽ ഒരു സർവീസ് ട്രെയിനിന്റെ ഈ കമാൻഡ് സമ്മറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശരാശരി ഉൾപ്പെടെ 5 പോയിന്റ് സമ്മറികളുള്ള എല്ലാ ന്യൂമറിക് വേരിയബിളുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ കാറ്റഗറിക്കൽ വേരിയബിളായ സർവീസ് വേരിയബിളിന് എത്ര നോകൾ ഉണ്ടെന്നും ആ പ്രത്യേക ആട്രിബ്യൂട്ടിൽ എത്ര യെസ് മൂല്യങ്ങൾ ഉണ്ടെന്നും അത് പറയുന്നു സർവീസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇതേ സമ്മറി ഉപയോഗിക്കാം കൂടാതെ എല്ലാ ന്യൂമെറിക് വേരിയബിളുകൾക്കുമുള്ള 5 പോയിന്റ് സമ്മറി ഇത് നിങ്ങൾക്ക് തിരികെ നൽകുമെന്നും കൂടാതെ സർവീസ് പരിശോധനയിൽ എത്ര നോ മൂല്യങ്ങളും എത്ര യെസ് മൂല്യങ്ങളും ഉണ്ടെന്നത് ഇത് നിങ്ങൾക്ക് തിരികെ നൽകുന്നു സേവന പരിശോധനയിൽ ഞങ്ങൾക്ക് 99 നോ മൂല്യങ്ങളും 36 യെസ് മൂല്യങ്ങളും ഉണ്ട് ഈ നമ്പർ മനസ്സിൽ വയ്ക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യെസ് അല്ലെങ്കിൽ നോ മൂല്യങ്ങൾ എത്ര ഉണ്ടെന്ന് ശരിയായി നമുക്ക് അറിയില്ല അതുകൊണ്ട് അതിൽ എത്ര യെസ് ഉണ്ടെന്നും എത്ര നോ ഉണ്ടെന്നും നമ്മൾ knn ഉപയോഗിച്ച് പ്രവചിക്കാൻ പോകുന്നു ഇപ്പോൾ ഈ ലെക്ച്ചറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ജോലി നമുക്ക് ചെയ്യാം അതായത് R ൽ K നിയറെസ്റ് നെയിബേർസ് ഇമ്പ്ലിമെൻറ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ K നിയറെസ്റ് നെയിബേർസ് ഇമ്പ്ലിമെൻറ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ knn ഫങ്ക്ഷനാണ് ഈ knn ഫംഗ്ഷൻ നിരവധി വാദങ്ങൾ എടുക്കുന്നു എന്നാൽ ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചിലത് ഞാൻ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിൻ ടെസ്റ്റ് cl k എന്നിവയാണ് ഇതിന് ആവശ്യമായ വാദങ്ങൾ ഇവ ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ട്രെയിൻ അടിസ്ഥാനപരമായി പരിശീലന സെറ്റ് കേസുകളുടെ ഒരു മാട്രിക്സ് അല്ലെങ്കിൽ ഒരു ഡാറ്റ ഫ്രെയിം ആണ് അതായത് നിങ്ങൾ എല്ലാ ഡാറ്റയും നൽകണം ഈ സാഹചര്യത്തിൽ ഇതാണ് നമ്മുടെ സർവീസ് ട്രെയിൻ ഡാറ്റ ഫ്രെയിം ടെസ്റ്റ് സെറ്റ് കേസുകൾക്കുള്ള ഒരു മാട്രിക്സ് അല്ലെങ്കിൽ ഡാറ്റ ഫ്രെയിമാണ് ഈ ടെസ്റ്റ് ഈ സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ ടെസ്റ്റ് മാട്രിക്സ് അല്ലെങ്കിൽ ഡാറ്റ ഫ്രെയിം ഇത് നമ്മളുടെ സർവീസ് ടെസ്റ്റ് ഡാറ്റ ഫ്രെയിം ആയിരിക്കും ഈ cl ഒരു പരിശീലന സെറ്റിന്റെ യഥാർത്ഥ ക്ലാസ്സിഫിക്കേഷന്റെ ഒരു ഘടകമാണ് ബഹുഭൂരിപക്ഷം വോട്ടിംഗ് മാനദണ്ഡത്തിൽ പ്രവർത്തിക്കുന്ന ഈ അൽഗോരിതം ചെയ്യുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട നെയിബറുകളുടെ എണ്ണമാണ് ഈ k എന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് ഇപ്പോൾ നമുക്ക് ഈ knn നമ്മുടെ ഡാറ്റയിൽ നടപ്പിലാക്കാം നിങ്ങൾ അത് എങ്ങനെ ചെയ്യും അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട രീതി ഇപ്രകാരമാണ് ഇവിടെ ചില അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം അതിനാൽ മുമ്പത്തെ ലെക്ച്ചറിൽ നമ്മൾ കണ്ടതുപോലെ K നിയറെസ്റ് നെയിബർ ഒരു അലസമായ അൽഗോരിതം ആണ് കൂടാതെ ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് നേരിട്ട് പ്രവചനങ്ങൾ നടത്താനും കഴിയും ഇത് ട്രെയിനിങ്ങും ടെസ്റ്റിംഗ് ഡാറ്റാ സെറ്റുകളും താൽപ്പര്യത്തിന്റെ ക്ലാസ് വേരിയബിളും സ്വീകരിക്കുന്നു അത് ഫലത്തിന്റെ കാറ്റഗറിക്കൽ വേരിയബിളാണ് കൂടാതെ ഞാൻ സൂചിപ്പിച്ചതുപോലെ k എന്ന പാരാമീറ്റർ ക്ലാസ്സിഫിക്കേഷനായി പരിഗണിക്കേണ്ട നിയറെസ്റ് നെയിബേഴ്സിന്റെ എണ്ണം വ്യക്തമാക്കുന്നു അതിനാൽ ഞാൻ ഈ knn അൽഗോരിതം നടപ്പിലാക്കുന്നത് ഈ knn കമാൻഡ് വഴിയാണ് പരിശീലന ഡാറ്റ സെറ്റ് എന്ന നിലയിൽ ഞാൻ എന്റെ എല്ലാ സർവീസ് ട്രെയിൻ ഡാറ്റാ സെറ്റുകളും നൽകും എനിക്ക് ഇവിടെ നെഗറ്റീവ് 6 ഉണ്ടെന്ന് ഓർക്കുക ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കും കൂടാതെ ആറാം കോളം ഒഴികെയുള്ള സർവീസ് ടെസ്റ്റിലെ ആട്രിബ്യൂട്ടുകളാണ് ഞാൻ നൽകിയിരിക്കുന്ന ടെസ്റ്റ് ഡാറ്റ സെറ്റ് കൂടാതെ ക്ലാസ് വേരിയബിളുകളിൽ എന്റെ ക്ലാസ്സിഫിക്കേഷൻ പരാമീറ്ററായി ഞാൻ ഈ ആറാമത്തെ കോളം നൽകിയിട്ടുണ്ട് നിയറെസ്റ് നെയിബേഴ്സിന്റെ എണ്ണം 3 ആയി കണക്കാക്കുന്ന ഒരു knn നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ഈ knn ഫംഗ്ഷന്റെ ഇൻപുട്ട് ആർഗ്യുമെന്റുകൾ ഇവയാണ് ഞാൻ ഈ കമാൻഡ് മുഴുവനും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ടെസ്റ്റ് ഡാറ്റാ സെറ്റിനുള്ള ലേബലുകൾ കണക്കാക്കുകയും അത് ഈ പ്രവചിച്ച knn ൽ സംഭരിക്കുകയും ചെയ്യും വരുന്ന സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഫലങ്ങൾ കാണിക്കാം അതേസമയം നമുക്ക് സർവീസ് ട്രെയിനിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റായി വ്യാഖ്യാനിക്കാം കൂടാതെ ഡേറ്റ ഫ്രയിമുകളുടെ ലെക്ച്ചറിൽ സർവീസ് ട്രെയിൻ എന്നത് ഒരു ഡേറ്റ ഫ്രയിമാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ഇതാണ് 6 എന്നതിനർത്ഥം സർവീസ് ട്രെയിൻ ഡാറ്റ ഫ്രെയിമിൽ എല്ലാ റോകളും എടുത്ത് കോളം 6 ഒഴിവാക്കുക എന്നതാണ് ഇവിടെയുള്ള പ്രസ്താവന അർത്ഥമാക്കുന്നത് ഈ കമാൻഡ് ഇവിടെ അവസാന കോളം ഒഴികെയുള്ള സർവീസ് ട്രെയിനിൽ വിവരങ്ങൾ നൽകുന്നു അതുപോലെ ഇവിടെയുള്ള ഈ കമാൻഡ് അവസാന കോളം ഒഴികെയുള്ള സർവീസ് ടെസ്റ്റിലെ വിവരങ്ങൾ നൽകുന്നു കൂടാതെ സർവീസ് ട്രെയിൻ ഡോളർ ചിഹ്നം സർവീസ് പരിശീലന ഡാറ്റയുടെ അവസാന കോളം അൽഗോരിതത്തിന്റെ ക്ലാസ്സിഫിക്കേഷൻ ഘടകമായി നൽകുന്നു നിങ്ങൾ ഈ പാരാമീറ്ററുകളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക knn ഈ ടെസ്റ്റ് ഡാറ്റാ പോയിന്റുകളെ തരംതിരിക്കുകയും തുടർന്ന് ഈ പ്രവചിച്ച knn ൽ ലേബലുകൾ സംഭരിക്കുകയും ചെയ്യും നമുക്ക് റിസൾട്ടുകളും പ്രവചിച്ച knn ൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും നോക്കാം അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതുപോലെ പ്രവചിച്ച knn എന്നത് അൽഗോരിതത്തിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് ടെസ്റ്റ് ഡാറ്റയിലെ ഓരോ കേസിനും സർവീസ് ആവശ്യമാണോ അല്ലയോ എന്ന് സൂചിപ്പിക്കുന്ന യെസ് അല്ലെങ്കിൽ നോ എന്ന കാറ്റഗറിക്കൽ വേരിയബിൾ ഉള്ളതാണ് നിങ്ങൾ ഈ പ്രവചിച്ച knn പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പക്കലുള്ള ഈ 135 മൂല്യങ്ങളിൽ ആദ്യത്തെ കാറിന് സർവീസൊന്നും ആവശ്യമില്ല രണ്ടാമത്തെ കാറിനും സർവീസൊന്നും ആവശ്യമില്ല എന്നാൽ 23 ാമത്തെ കാറിന് സർവീസ് ആവശ്യമുണ്ട് എന്നതാണ് നിങ്ങൾ കാണുന്നത് അതിനാൽ ഈ knn അൽഗോരിതം അതാണ് ചെയ്യുന്നത് സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് കാറുകളെ തരംതിരിക്കുന്ന നിങ്ങളുടെ ജോലി നിങ്ങൾ പൂർത്തിയാക്കി യഥാർത്ഥ മൂല്യം അറിയാനുള്ള ഈ ആഡംബരം നിങ്ങൾക്ക് ഇല്ലായെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് നിർത്തുന്നത് എന്നാൽ R കേസിൽ എന്താണ് സംഭവിച്ചത് നമ്മളുടെ പക്കലുള്ള ഈ ഡാറ്റാ സെറ്റിന് സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ നമുക്ക് ഉണ്ട് ഇപ്പോൾ യഥാർത്ഥ ക്ലാസുകൾ അറിയാനുള്ള ഈ ആഡംബരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് വിളിക്കുന്നത് സൃഷ്ടിക്കാനും ഈ പെർഫോമൻസിനെ നിങ്ങൾ എത്ര നന്നായി തരംതിരിച്ചിട്ടുണ്ടെന്നത് കാണാനും കഴിയും അതിനാൽ ഈ കൺഫ്യുഷൻ മാട്രിക്സ് സൃഷ്ടിക്കുന്നതിന് രണ്ട് വഴികളുണ്ട് ഒന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാട്രിക്സ് മാനുവലായി ജനറേറ്റ് ചെയ്യാൻ കഴിയും മറ്റൊരു മാർഗം ഈ ക്യാരറ്റ് പാക്കേജ് ഉപയോഗിച്ച് കൺഫ്യൂഷൻ മാട്രിക്സ് സൃഷ്ടിക്കാൻ കഴിയും അതോടൊപ്പം പ്രൊഫ രഘു തന്റെ പെർഫോമൻസ് മാട്രിക്സ് ലെക്ച്ചറിൽ പറഞ്ഞിട്ടുള്ള മറ്റ് പാരാമീറ്ററുകളും ഉപയോഗിക്കാം ഈ കൺഫ്യൂഷൻ മാട്രിക്സ് എങ്ങനെ മാനുവലായി ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനാൽ ഈ പ്രവചിച്ച knn എന്നത് knn അൽഗോരിതം ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെടുന്ന ലേബലാണ് നിങ്ങൾ ഇവിടെ ഈ കമാൻഡ് നിരീക്ഷിക്കുമ്പോൾ സർവീസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന സർവീസ് ടെസ്റ്റ് ഡേറ്റ ഫ്രെയിമിന്റെ അവസാന നിരയാണിത് എന്ന് കാണാം ഞാൻ ടേബിൾ ചെയ്യുമ്പോൾ അത് ഒരു കണ്ടിൻജൻസി പട്ടിക സൃഷ്ടിക്കുകയും ഈ കൺഫ്യൂഷൻ മാട്രിക്സിൽ ഫലം സംഭരിക്കുകയും ചെയ്യുന്നു ഞാൻ ഈ കൺഫ്യൂഷൻ മാട്രിക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഫലം ഇപ്രകാരമാണ് ഇതാണ് പ്രവചിക്കപ്പെട്ട നോയും യെസും ഇവയാണ് ശരിയായ യെസും നോയും നിങ്ങളുടെ ടെസ്റ്റ് ഡാറ്റ സർവീസ് 99 കാറുകൾക്ക് ആവശ്യമില്ലെന്നും 36 കാറുകൾക്ക് ആവശ്യമാണെന്നും നമ്മൾ കണ്ടത് ഓർക്കുക ഈ knn അവയെല്ലാം കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് ഇതാണ് കൺഫ്യൂഷൻ മാട്രിക്സ് നിങ്ങൾ കൺഫ്യൂഷൻ മാട്രിക്സ് സ്വമേധയാ സൃഷ്ടിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ മാട്രിക്സ് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യത കണക്കാക്കാം രഘുവിന്റെ പെർഫോമൻസ് മാട്രിക്സ് ലെക്ച്ചറിൽ നൽകിയിരിക്കുന്ന കൃത്യതയുടെ സൂത്രവാക്യം എങ്ങനെയാണ് നിങ്ങൾ കൃത്യത കണക്കാക്കുന്നത് അടിസ്ഥാനപരമായി സർവീസ് ടെസ്റ്റിലെ മൊത്തം എൻട്രികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കൃത്യമായി കിട്ടുന്ന പ്രവചിക്കപ്പെട്ട മൂല്യങ്ങളായ ഡയഗണൽ ഘടകങ്ങളാണ് ഞാൻ എടുക്കുന്നത് വിഭജിക്കുമ്പോൾ 99 36 എന്നത് 135 ആയി നിങ്ങൾക്ക് കൃത്യത ലഭിക്കും കൂടാതെ സർവീസിന്റെ n റോയും 135 ആണ് ഈ കമാൻഡ് ഇവിടെ കൺഫ്യൂഷൻ മാട്രിക്സിന്റെ ഡയഗ് ആണ് അത് 99 36 എന്നീ ഘടകങ്ങൾ എടുക്കും അതേ കമാൻഡ് അവയെ സമ്മറൈസ് ചെയ്യും സർവീസ് ടെസ്റ്റിലെ റോയുടെ എണ്ണം കൊണ്ട് അത് 135 ആണ് അതിനെ 135 കൊണ്ട് ഹരിക്കുമ്പോൾ knn കൃത്യതയുടെ മൂല്യം 1 ആയി ലഭിക്കും knn ന് എല്ലാ നോ കേസുകളും കൃത്യമായി നോ എന്നും എല്ലാ യെസ് കേസുകളും കൃത്യമായി യെസ് എന്നും പ്രവചിക്കാൻ കഴിയുന്നതിനാൽ നിങ്ങളുടെ അക്ക്യൂറസി 1 തന്നെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ കൺഫ്യൂഷൻ മാട്രിക്സ് സ്വമേധയാ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ Caret പാക്കേജും കമാൻഡ് കൺഫ്യൂഷൻ മാട്രിക്സും ഉപയോഗിച്ച് ഈ കൺഫ്യൂഷൻ മാട്രിക്സ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നോക്കാം അതിനാൽ ഈ ക്യാരറ്റ് പാക്കേജിൽ ഉള്ള കൺഫ്യൂഷൻ മാട്രിക്സ് ജനറേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൺഫ്യൂഷൻ മാട്രിക്സ് ആണ് നിങ്ങൾ നൽകേണ്ട ഇൻപുട്ട് ആർഗ്യുമെന്റുകൾ പ്രവചിച്ച ലേബലുകലാണ് അവ യഥാർത്ഥ ലേബലുകളുമാണ് നിങ്ങൾ ഈ രണ്ട് ആർഗ്യുമെന്റുകളും പാസാക്കുമ്പോൾ ഇത് കൺഫ്യൂഷൻ മാട്രിക്സിനൊപ്പം ജനറേറ്റുചെയ്യുന്ന കൺഫ്യൂഷൻ മാട്രിക്സ് ആണ് ഇത് മറ്റ് നിരവധി പാരാമീറ്ററുകൾ സൃഷ്ടിക്കും നമ്മൾ ഇതിനകം തന്നെ കൃത്യത സ്വമേധയാ കണക്കാക്കിയിട്ടുണ്ട് അത് 1 ആണെന്ന് നമ്മൾ കണ്ടു കൃത്യത 1 ആയി ഈ നൽകുന്ന കൺഫ്യൂഷൻ മാട്രിക്സ് ഫംഗ്ഷനുകളും നിങ്ങൾക്ക് ഇപ്പോൾ താരതമ്യം ചെയ്യാം ഈ കൺഫ്യൂഷൻ മാട്രിക്സിനൊപ്പം സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി മുതലായ നിരവധി പാരാമീറ്ററുകളും നമുക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി 1 കൂടാതെ സ്പെസിഫിസിറ്റി 1 ഉം ആണ് ഈ സാഹചര്യത്തിൽ എല്ലാ പോസിറ്റീവ് ക്ലാസുകളും ശരിയായി വർഗ്ഗീകരിച്ചിരിക്കുന്നതിനാൽ എല്ലാ നെഗറ്റീവ് ക്ലാസുകളും ശരിയായി വർഗ്ഗീകരിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾക്ക് ഒന്നിന്റെ അനുയോജ്യമായ മൂല്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം കൂടാതെ സെന്സിറ്റിവിറ്റിക്കും സ്പെസിഫിസിറ്റിക്കും ഒന്ന് വന്നതും അതിനാൽ ബാലൻസ് കൃത്യത വീണ്ടും സെൻസിറ്റിവിറ്റി സ്പെസിസിറ്റി ബൈ 2 ആണ് അത് 2 ബൈ 2 ആണ് ഇത് 1 ആണ് അതിനാൽ R ൽ ഈ knn അൽഗോരിതം നടപ്പിലാക്കുന്നത് ഇങ്ങനെയാണ് csv ഫയലുകൾ എങ്ങനെ വായിക്കാം ഡാറ്റ ടൈപ്പുകളും R ഒബ്ജക്റ്റുകളുടെ സമ്മറിയും അറിയാൻ സ്ട്രക്ച്ചറും സമ്മറി ഫംഗ്ഷനുകളും എങ്ങനെ ഉപയോഗിക്കാം ഈ K നിയറെസ്റ് നെയിബേഴ്സിന്റെ അൽഗോരിതം എങ്ങനെ നടപ്പിലാക്കാം എന്നിവയാണ് നമ്മൾ ഈ ലെക്ച്ചറിൽ കണ്ടത് ഇത് ലേബൽ ചെയ്ത ഡാറ്റ ആവശ്യമുള്ള സൂപ്പർവൈസ് ചെയ്ത പഠന അൽഗോരിതം ആണ് ഈ knn ഫംഗ്ഷൻ ഉപയോഗിച്ച് R ൽ ഈ K നിയറെസ്റ് നെയിബേഴ്സിന്റെ അൽഗോരിതം എങ്ങനെ നടപ്പിലാക്കാമെന്നും നമ്മൾ കണ്ടു അതിനാൽ R ൽ knn അൽഗൊരിതം എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ ട്യൂട്ടോറിയൽ സെഷൻ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു അടുത്ത ലെക്ച്ചറിൽ പ്രൊഫ രഘു ഈ k അതായത് ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തെക്കുറിച്ച് സംസാരിക്കും അതിനുശേഷം k എന്ന ക്ലസ്റ്ററിംഗ് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു കേസ് പഠനവുമായി ഞാൻ മടങ്ങിവരും